സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 33 ആണ് ഇന്ന് നമ്മൾ ഡബിൾ ഇന്റഗ്രലുകളുമായി തുടരും പക്ഷേ സർഫസ് ഏരിയ അഥവാ ഉപരിതല വിസ്തീർണ്ണം കണക്കാക്കുന്ന ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടരും വോളിയം കമ്പ്യൂട്ടിംഗിനായും ഇന്റഗ്രേഷൻ ഡൊമെയ്നിന്റെ ഏരിയ കണ്ടെത്തുന്നതിനായും ഉള്ള ഡബിൾ ഇന്റഗ്രലുകളുടെ പ്രയോഗങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു ഉപരിതല വിസ്തീർണ്ണം കണക്കാക്കുന്നതിനുള്ള ചർച്ച ഇന്ന് നമ്മൾ തുടരും അതിനാൽ സിംഗിൾ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ കർവ് ദൈർഘ്യം കണക്കാക്കും എന്ന് ഓർക്കുക ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഈ കർവ് ഉണ്ട് അല്ലെങ്കിൽ f എന്ന ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് x ആക്സിസ് ഉണ്ട് തുടർന്ന് y ആക്സിസ് ഉണ്ട് ഇത് x ന്റെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് f ഫംഗ്ഷനാണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഡൊമെയ്ൻ മുഴുവൻ മുതൽ വരെ ചെറിയ ഇൻറർവെല്ലുകൾ ആയി മുതൽ വരെ വിഭജിക്കുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഇൻറർവെല് പക്ഷേ ഈ ഡൊമെയ്നിനെ മുതൽ വരെയുള്ള ഇൻറർവെല്ലുകളിൽ നമ്മൾ വിഭജിച്ച് മുതൽ ഇൻറർവെല് ന് അകത്ത് ഈ എന്ന പോയിന്റ് നമുക്ക് പരിഗണിക്കാം കൂടാതെ എന്ന പോയിന്റനോട് അനുബന്ധമായി കർവ്ലെ എന്ന പോയിൻറ്ൽ ടാൻജെന്റ് വരയ്ക്കുന്നു ഈ ടാൻജെന്റിന്റെ ദൈർഘ്യം നമ്മൾ എല്ലാ ഇൻറർവെല്ലുകൾക്കും ചേർക്കുകയും പിന്നീട് ഈ ഇൻറർവെല്ലുകളുടെ വീതി 0 ലേക്ക് പോകുകയും ചെയ്യുന്ന ലിമിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കർവ് ദൈർഘ്യം നേടുന്നതാണ് അതിനാൽ ഇവിടെ ഈ ആശയം കാണിക്കുന്നു ഇത് ടാൻജെന്റിന്റെ ഭാഗം എന്നതാണ് ഈ എന്ന പോയിന്റിലെ ടാൻജെന്റ് രേഖയാണിത് ഇവിടെ ഇൻറർവെല് ദൈർഘ്യം എന്നാണ് θ സൂചിപ്പിച്ചത് x അക്ഷത്തിൽ നിന്ന് ടാൻജെന്റ് നിർമ്മിക്കുന്ന കോണാണെന്ന് കരുതുക

അതിനാൽ നമുക്ക് ഇവിടെ ഈ നീളം ഉണ്ട് ഇവിടെ അടി ഭാഗത്തെ ഈ നീളം xi ആണ് ഇതാണ് ആംഗിൾ θ ഇപ്പോൾ കർവിന്റെ നീളം ടാൻജെന്റുകളുടെ ഈ ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തു ലിമിറ്റ് എടുക്കുമ്പോൾ നൽകപ്പെടും കാരണം നമ്മൾ പരിധി എടുക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു എറർ ഉണ്ട് കാരണം ഈ ടാൻജെന്റ് എന്ന ഇൻറർവെല്ലിനകത്ത് കർവിനെ പ്രതിനിധീകരിക്കുന്നില്ല പക്ഷേ ഈ 0 ലേക്ക് പോകുമ്പോൾ ക്രമേണ ഈ കർവിന്റെ ദൈർഘ്യം a മുതൽ b വരെ കണക്കാക്കാം അതിനാൽ ഈ ലിമിറ്റ് i 1 മുതൽ n വരെ എടുക്കേണ്ടതുണ്ട് തുടർന്ന് എല്ലാം കൂട്ടിച്ചേർത്തു എന്ന ലിമിറ്റ് നൽകുന്നു കർവിന്റെ നീളം

അതിനാൽ കർവ് ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഫോർമുല 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡെറിവേറ്റീവ് സ്ക്വയർ എന്ന് നൽകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ വിപുലീകരണം ഉപരിതലത്തിന്റെ കണക്കുകൂട്ടലിനായിരിക്കും അവിടെ ടാൻജെന്റ് ലൈനിന് പകരം ടാൻജെന്റ് സർഫസ് എന്ന ആശയം ലഭിക്കും കൂടാതെ ഇവിടെ നമ്മൾ ടാൻജെന്റിന്റെ കഷണങ്ങൾ എടുക്കുകയും അവ ചേർക്കുകയും പിന്നീട് ലിമിറ്റ് എടുത്തതിനുശേഷം കർവ് ദൈർഘ്യം ലഭിക്കുകയും ചെയ്തു ടു ഡയമെന്ഷന്റെ കാര്യത്തിൽ നമുക്ക് അവിടെ സർഫസ്ഉണ്ട് ഒപ്പം നമ്മൾ ടാൻജെന്റ് പ്ലെയിൻ അല്ലെങ്കിൽ ടാൻജെന്റ് പ്ലെയിൻന്റെ കഷണങ്ങൾ എടുക്കും എന്നിട്ട് നമ്മൾ ആ കഷണങ്ങൾ കൂട്ടിച്ചേർക്കുകയും ലിമിറ്റ് എടുക്കുകയും ചെയ്തതിനുശേഷം അടിസ്ഥാനപരമായി നമുക്ക് സർഫസ്ന്റെ വിസ്തീർണ്ണം ലഭിക്കും അതിനാൽ നിസ്സാരമായ വിപുലീകരണമാണ് ഇത് നമ്മൾ ഔപചാരിക തെളിവിലൂടെ പോകില്ല എന്നാൽ സിംഗിൾ വേരിയബിളിന്റെ കാര്യത്തിൽ കർവ് ദൈർഘ്യം കണക്കാക്കുന്ന ഇന്റഗ്രൽ എന്നാണെന്ന ആശയം നിങ്ങൾ ഇവിടെ മനസിലാക്കിയിട്ടുണ്ടെങ്കിൽ സർഫസ് ഏരിയ കണക്കാക്കുന്നതിനായി നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു വിപുലീകരണം നടത്തും അതിനാൽ കർവ് ദൈർഘ്യത്തിന് ഫോർമുല a മുതൽ b വരെ ഡൊമെയ്നിലൂടെ എന്ന ഇന്റഗ്രന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതായിരുന്നു സർഫസ്ന്റെ കാര്യത്തിൽ z f x y ഒരു ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഇവിടെ നമുക്ക് സർഫസ് നൽകുന്നത് z f x y ആണ് അതിനാൽ ഇതാണ് ഇവിടത്തെ സർഫസ് 1 ഡൈമൻഷണൽ കേസിനുള്ളതിന് സമാനമായ സർഫസ് ഏരിയ നമുക്ക് വീണ്ടും നേടാനാകും നമ്മൾക്ക് ഡബിൾ ഇന്റഗ്രൽ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഡൊമെയ്ൻ എന്താണെന്നും ന് സമാനമായതു എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ട് അതിനാൽ x അടിസ്ഥാനമാക്കിയുള്ള ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് സ്ക്വയർ പ്ലസ് y അടിസ്ഥാനമാക്കിയുള്ള ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് സ്ക്വയർ തുടർന്ന് xy പ്ലെയിനിലുള്ള ഡൊമെയ്നിലൂടെ ഇത് ഒന്നുമല്ല തന്നിരിക്കുന്ന സർഫസ്ൻറെ പ്രൊജക്ഷൻ അല്ലാതെ നമ്മൾ ഈ ഇന്റഗ്രന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതിനാൽ നമുക്ക് സർഫസ് z ആക്സിസിൽ ഉണ്ട് ഈ സർഫസ്നെ xy പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ D എന്നത് xy പ്ലെയിനിലെ ആ ഡൊമെയ്ൻ ആയിരിക്കും അതിനാൽ സർഫസ്ന്റെ xy പ്ലെയിനിലെ പ്രൊജക്ഷനാണ് D അതുപോലെ തന്നെ എന്ന ഈ ഫോർമുല z എന്നത് x y എന്നിവയുടെ ഒരു ഫങ്ക്ഷൻ ആകുമ്പോൾ ഉള്ളതാണ് ഇവിടെ D എന്നത് സർഫസ്ന്റെ xy പ്ലെയിനിലെ പ്രൊജക്ഷനാണ് ഇവിടെ x y എന്നിവയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവുകൾ എടുത്തത് സ്വാഭാവികമാണ് ഫംഗ്ഷൻ xμyz പോലെ നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ yψxz നൽകിയിട്ടുണ്ട് എങ്കിൽ ഈ സാഹചര്യത്തിൽ ഫോർമുല വ്യക്തമായി മാറും അതിനാൽ ഈ കേസിൽ x എന്നത് y z എന്നിവയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ തുടർന്ന് y z എന്നിവയുമായി ബന്ധപ്പെട്ട പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ദൃശ്യമാകും കൂടാതെ ഇവിടെ ഡൊമെയ്ൻ എന്നത് സർഫസ്ന്റെ yz പ്ലെയിനിലെ പ്രൊജക്ഷനാണ് എന്ന രൂപത്തിൽ ഫംഗ്ഷൻ നൽകുമ്പോൾ ഇന്റഗ്രന്റിൽ x z എന്നിവയുമായി ബന്ധപ്പെട്ട് ഡെറിവേറ്റീവുകൾ ഉണ്ടാകും വീണ്ടും ഇന്റഗ്രേഷന്റെ ഡൊമെയ്ൻ സർഫസ്ന്റെ xz പ്ലെയിനിലെ പ്രൊജക്ഷൻആയിരിക്കും അതിനാൽ ഇവിടെ ആദ്യത്തെ കേസിൽ xμyz എന്ന ഫങ്ക്ഷൻ ആകുമ്പോൾ എന്ന് സൂചിപ്പിക്കുന്ന ഡൊമെയ്ൻ ഇവിടെ ഉണ്ടാകും ഇപ്പോൾ ഇന്റഗ്രൽ എന്നാകും

ഇപ്പോൾ ഇവിടെ ഡൊമെയ്ൻ എന്നത് സർഫസ്ന്റെ yz പ്ലെയിനിലെ പ്രൊജക്ഷനാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ നൽകുമ്പോൾ നമുക്ക് x z എന്നിവയുമായി ബന്ധപ്പെട്ട് y യുടെ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉണ്ടാകും ഇവിടെ ഈ എന്നത് സർഫസ്ന്റെ xz പ്ലെയിനിലെ പ്രൊജക്ഷൻ ആയിരിക്കും അതിനാൽ ആദ്യത്തെ കേസിൽ ഈ ഉം രണ്ടാമത്തെ സന്ദർഭത്തിൽ ഉം നൽകിയ സർഫസിനെ yz പ്ലെയിനിലേക്കും xz പ്ലെയിനിലേക്കും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതാണ് അതിനാൽ എന്ന ഡബിൾ ഇന്റഗ്രലിന്റെ സഹായത്തോടെ S നെ എഴുതാം ഇന്റഗ്രേഷൻ ഡൊമെയ്നിന്റെ വിസ്തീർണ്ണം കണക്കുകൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ D യുടെ വിസ്തീർണ്ണം നമ്മൾ ഈ ഇന്റഗ്രന്റിനെ 1 ആയി സജ്ജീകരിക്കും അതിനാൽ നമ്മൾക്ക് മൂന്ന് ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഒന്ന് ഈ ഡൊമെയ്ൻ D യുടെ വിസ്തീർണ്ണം മറ്റൊന്ന് xy പ്ലെയ്നിന് കീഴിലുള്ള വോളിയം ആയിരുന്നു അത് വീണ്ടും ഡബിൾ ഇന്റഗ്രൽ നൽകി ഇന്റഗ്രാൻഡ് ലളിതമായി fxy ആയിരുന്നു സർഫസ് ഏരിയ കണക്കാക്കാൻ ഉള്ള ഫോർമുല ഇപ്പോൾ നമുക്കുണ്ട് അത് എന്നാണ് അതിനാൽ എന്ന ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണ്ണം കണക്കുകൂട്ടുക എന്ന ഒരു പ്രോബ്ലം നമ്മൾ എടുക്കുന്നു അതിനാൽ 0 0 0 കേന്ദ്രീകരിച്ച് എന്ന സമവാക്യം നൽകിയ ഒരു ഗോളമുണ്ട് അതിനാൽ ഗോളത്തിന്റെ റേഡിയസ് a അതിനാൽ സർഫസ് ഏരിയ ഇപ്പോൾ കണക്കാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഗോളത്തിന്റെ മുകൾ ഭാഗത്തെ നമ്മൾ സാന്ദർഭികമായി എടുക്കും ഗോളത്തിന്റെ മുകളിലെ പകുതി ഭാഗം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇത് xy പ്ലെയ്നിൽ a റേഡിയസ് ഉള്ള വൃത്തം നൽകും നമുക്ക് ഇത് yz അല്ലെങ്കിൽ zx അല്ലെങ്കിൽ xy എന്നിവയിലേതെങ്കിലും പ്ലെയ്നിലേക്കും പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് xy പ്ലെയ്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം അതിനാൽ xy പ്ലെയ്നിൽ ഇത് 0 എന്ന കേന്ദ്രത്തിന്റെ ആരം a ആയിട്ടുള്ള ഒരു വൃത്തമായിരിക്കും അതിനാൽ നമ്മൾക്ക് ഇപ്പോൾ ഡൊമെയ്ൻ ഉണ്ട് അത് xy പ്ലെയ്നിലെ വൃത്താകൃതിയിലുള്ള ഡിസ്ക് ആണ് തുടർന്ന് സർഫസ് ന് എന്ന് നൽകും കാരണം ഈ ഗോളത്തിന്റെ മുകൾ ഭാഗം നമ്മൾപരിഗണിക്കുന്നു മാത്രമല്ല മുഴുവൻ ഗോളത്തിന്റെയും സർഫസ് ഏരിയ കണക്കാക്കുന്നത് ഇരട്ടിയാക്കാം അതിനാൽ നമ്മൾ പരിഗണിക്കുന്നത് പോസിറ്റീവ് ഭാഗം മാത്രമാണ് അതായത് ഗോളത്തിന്റെ മുകൾ ഭാഗം മാത്രം അതിനെ xy പ്ലെയ്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ആരം a യും സെൻറർ 0 0 യും ആയിട്ടുള്ള വൃത്തം ലഭിക്കും അതിനാൽ ഇവിടെ നമുക്ക് സർഫസ്ൻറെ സമവാക്യം എന്ന് മുകളിലെ പകുതിയിലെ പോസിറ്റീവിനായി ഞാൻ ചർച്ചചെയ്തത് എടുക്കും ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്കൾ നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട് കാരണം ഫോർമുലയിൽ x നെ സംബന്ധിച്ച് z ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവും y യുമായി ബന്ധപ്പെട്ട് z ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവും ആവശ്യമാണ് അതിനാൽ x നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവിനായി എന്ന് എഴുതാം എന്നിട്ട് നമുക്ക് സമാനമായി y യുമായി ബന്ധപ്പെട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് അതിനാൽ ഗോളത്തിന്റെ സർഫസ് ഏരിയ ലഭിക്കുന്നതിനായി നമ്മൾ എന്ന ഈ ഡബിൾ ഇന്റഗ്രൽ കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്നു

ഈ ഗോളത്തിന്റെ സർഫസ് ഏരിയ അതാണ് അതിനാൽ ഈ ഡബിൾ ഇന്റഗ്രലിന്റെ സഹായത്തോടെയും പോളാർ കോർഡിനേറ്റുകളുടെ സഹായത്തോടെയും നമുക്ക് ഈ സർഫസ് ഏരിയ വളരെ എളുപ്പത്തിൽ കണക്കാക്കാം അതിനാൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങുമ്പോൾ എന്ന ഗോളത്തെ എന്ന് സിലിണ്ടറിനാൽ മുറിച്ചുമാറ്റപ്പെട്ട ഭാഗത്തിൻറെ വിസ്തീർണ്ണം നമുക്ക് കാണാം അതിനാൽ നമുക്ക് വീണ്ടും എന്ന ഗോളമുണ്ട് അത് ഈ സിലിണ്ടർ ഉപയോഗിച്ച് മുറിച്ചുമാറ്റിയിരിക്കുന്നു ഇവിടെ തന്നിരിക്കുന്ന ഗോളത്തിൻറെ സമവാക്യത്തിൽ നിന്നും എന്നിവ എഴുതാം

അതിനാൽ ഇന്റഗ്രലിനായുള്ള ലിമിറ്റ്കൾ കണ്ടെത്തുക എന്നതാണ് ഇവിടെ ബുദ്ധിമുട്ടുള്ള ഭാഗം അത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഈ സാഹചര്യത്തിൽ ഗോളത്തെ സിലിണ്ടർ കൊണ്ട് മുറിക്കപ്പെട്ടു അതിനാൽ xy പ്ലെയ്നിലെ ഈ പ്രൊജക്ഷൻ ഒരു വൃത്തമാണ് കാരണം ഇത് ഒരു വൃത്താകൃതിയിലുള്ള സിലിണ്ടറായതിനാൽ പ്രൊജക്ഷൻ ഈ സർക്കിൾ ഇവിടെ നൽകിയിരിക്കുന്നു xy പ്ലെയ്നിൽ ഈ പ്രൊജക്ഷൻ കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എളുപ്പത്തിൽ ഉൾപ്പെടുത്താം അവസാനത്തെ ഉദാഹരണത്തിൽ എന്ന സിലിണ്ടറിൽ കിടക്കുന്ന z xy ഭാഗത്തിന്റെ സർഫസ് ഏരിയ നമ്മൾ നിർണ്ണയിക്കും അതിനാൽ നമുക്ക് വീണ്ടും സിലിണ്ടർ ഉണ്ട് പക്ഷേ ഇത് സെൻറർ 0 0 യു റേഡിയസ് 1 ഉം ഉള്ള ഒരു സിലിണ്ടറാണ് കൂടാതെ നമുക്ക് മുമ്പത്തെ ഉദാഹരണങ്ങളേക്കാൾ ഇത് വളരെ ലളിതമാണ്

അതിനാൽ എന്ന സർഫസിനെ എന്ന സിലിണ്ടർ മുറിക്കുന്നത് കാരണം xy പ്ലെയ്നിനിലെ പ്രൊജക്ഷൻ സർക്കിൾ അല്ലാതെ ഒന്നുമല്ല നമുക്ക് ഈ ൽ നിന്ന് x നെ സംബന്ധിച്ചിടത്തോളം പാർഷ്യൽ ഡെറിവേറ്റീവ് y യുമായി പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നിവ ഇവിടെ നിന്ന് കണക്കുകൂട്ടുന്നു അവ ഫോർമുലയിലേക്ക് ആവശ്യമാണ് എന്നിവ ആണ് ഇവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ന് ലഭിക്കുന്നു അതിനാൽ എന്താണ് നമ്മൾ കണ്ടത് സർഫസ് ഏരിയ അഥവാ ഉപരിതല വിസ്തീർണ്ണം കണക്കാക്കുന്നതിനുള്ള ഡബിൾ ഇന്റഗ്രലിന്റെ മറ്റൊരു ആപ്ലിക്കേഷനും ലളിതമായ എന്ന ഒരു ഫോർമുലയുടെ സഹായത്തോടെ ഏരിയ കണക്കുകൂട്ടാമെന്നുള്ളത് നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്റഗ്രലിന്റെ ഡൊമെയ്ൻ എന്നത് തന്നിരിക്കുന്ന സർഫസിന്റെ xy പ്ലെയ്നിനിലെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അത് yz പ്ലെയ്നിലോ zx പ്ലെയ്നിലോ ആയിരിക്കാം നമ്മൾക്ക് ആ പ്രൊജക്ഷൻ ലഭിച്ചുകഴിഞ്ഞാൽ അതായത് പ്രൊജക്ഷൻ തിരിച്ചറിഞ്ഞാൽ ലിമിറ്റ് നിർണ്ണയിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും തുടർന്ന് നമുക്ക് ഇന്റഗ്രൽ കണക്കുകൂട്ടാനും കഴിയും അതിനാൽ ഈ പ്രഭാഷണത്തിന്റെ തയ്യാറെടുപ്പിനായി നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് വളരെയധികം നന്ദി